നമസ്കാരം ഈ ആഴ്ചയിൽ നമ്മൾ നെറ്റ്വർക്കിൻ്റെ ചില പ്രധാനപ്പെട്ട സവിശേഷതകൾ ചർച്ച ചെയ്തു നമ്മൾ സർക്യൂട്ടിൻ്റെ ലീനിയരിറ്റി സവിശേഷത വെച്ചാണ് തുടങ്ങിയത് അവിടെ നമ്മൾ ഹോമോജിനിറ്റി അടിറ്റിവിറ്റി എന്താണെന്ന് ചർച്ചചെയ്തു എന്നിട്ട് നമ്മൾ സൂപ്പർപോസിഷൻ സിദ്ധാന്തത്തിലേക് നീങ്ങി എന്നിട്ട് നമ്മൾ വേറെ ആശയങ്ങൾ അതായത് സ്രോതസ്സ്പരിവർത്തനം ദ്വിത്വം ചർച്ച ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തെവനിയൻ സിദ്ധാന്തം തുടങ്ങി അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അടിസ്ഥാനപരമായി ചർച്ച ചെയ്തത് സ്രോതസ്സ് സ്വതന്ത്ര സ്രോതസ്സ് ആകുമ്പോൾ ഉള്ള തെവനിയൻ സിദ്ധാന്തത്തെ കുറിച്ചാണ് അതായത് വോൾട്ടേജും കറണ്ടും ഇവ രണ്ടും സ്വതന്ത്ര സ്രോതസ്സ് ആണ് അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു തുടരുന്നത് തെവനിയൻ സിദ്ധാന്തത്തെക്കുറിച്ച് ആണ് പക്ഷേ നമ്മൾ കൂടുതലായി ആശ്രിത സ്രോതസ്സ് ഉള്ളതായിരിക്കും ചർച്ച ചെയ്യുക ഇവ വോൾട്ടേജ്ജോ കറണ്ടോ ആകാം നമുക്ക് തുടങ്ങാം ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് സംക്ഷേപിച്ചു പുനരാഖ്യാനം നടത്താം നമ്മൾ തെവനിയൻ സിദ്ധാന്തം ചർച്ച ചെയ്തു കൂടാതെ നമ്മൾ ചർച്ച ചെയ്തു രണ്ടു ടെർമിനൽ ഉള്ള ലീനിയർ സർക്യൂട്ട് ആയി ഒരു തുല്യതാ സർക്യൂട്ട് മാറ്റിവയ്ക്കാം അത് വോൾട്ടേജ് സ്രോതസ്സ് റസിസ്റ്റർ ആയിട്ട് സീരീസിൽ ആണ് ഉണ്ടാവുക ടെർമിനലിൽ ഉള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് ടെർമിനലിൽ ഉള്ള തുല്യമായ റെസിസ്റ്റൻസ് ആണ് സ്വതന്ത്ര സ്രോതസ്സ് ഓഫ് ആയിരിക്കുമ്പോൾ നിർണ്ണയിക്കുമ്പോൾ നമ്മൾ സ്വതന്ത്ര സ്രോതസ്സ് ഓഫ് ആക്കും ഇതിൻ്റെ അർത്ഥം സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും കൂടാതെ സ്വതന്ത്ര കറണ്ട് സ്രോതസ്സ് ഓപ്പൺ സർക്യൂട്ടും അപ്പോൾ നമുക്ക് പൂർണമായി വലിയ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് 2 ടെർമിനലിനു കുറുകെ ഘടിപ്പിച്ചിട്ടുള്ള ലോഡിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നോഡ് a യിലും b യിലും ഒഴിച്ചുവിട്ട സർക്യൂട്ട് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വോൾട്ടേജിനും റെസിസ്റ്റൻസ്സീനും തുല്യമാണ് എന്നാൽ ഈ വോൾട്ടേജ് തെവനിയൻ വോൾട്ടേജ് ആയും റസിസ്റ്റൻസ് തെവനിയൻ റസിസ്റ്റൻസ് ആയും കരുതുക ടെർമിനൽ എ യ്ക്കും ബി യ്ക്കും കുറുകെയുള്ള V I വിശേഷലക്ഷണം ഈ രണ്ട് കേസിലെയും നമുക്ക് കാണാം ഇതിൻറെ അർത്ഥം V I വിശേഷലക്ഷണം തുല്യം ആയതുകൊണ്ട് ഈ രണ്ട് സർക്യൂട്ടും തുല്യമാണെന്നാണ് ഇപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്നിട്ട് നമ്മൾ തെവനിയൻ വോൾട്ടേജ് സ്ഥാപിച്ചു അതായത് തെവനിയൻ വോൾട്ടേജ് വേറൊന്നുമല്ല പക്ഷേ 2 ടെർമിനൽ ലീനിയർ സർക്യൂട്ടിനു കുറുകെയുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് വേറൊന്നുമല്ല പക്ഷേ സ്വതന്ത്ര സ്രോതസുകൾ ഓഫ് ആകുമ്പോൾ ടെർമിനലിൽ ഉണ്ടാകുന്ന ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ ടെർമിനൽ എ ലെയ്ക്കും ബി ലെയ്ക്കും നോക്കിയാൽ തുല്യതാ റസിസ്റ്റൻസ് ഇവിടെനിന്ന് കാണുന്നത് വേറൊന്നുമല്ല തെവനിയൻ റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു തെവനിയൻ റസിസ്റ്റൻസ് നിർണ്ണയിക്കുവാൻ ആയി നമ്മൾ രണ്ട് കേസ് പരിഗണിക്കണം എന്താണ് ആദ്യത്തെ കേസ് ആദ്യത്തെ കേസിൽ നെറ്റ്വർക്കിൽ ആശ്രിത സ്രോതസ്സുകൾ ഉണ്ടായിരുന്നില്ല കൂടാതെ നമ്മൾ സ്വതന്ത്ര സ്രോതസ്സുകൾ എല്ലാം ഓഫ് ആക്കിയിരുന്നു ഇപ്പോൾ ചർച്ച ചെയ്തത് പോലെ വോൾട്ടേജ് സ്രോതസ്സ് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും കറണ്ട് സ്രോതസ്സ് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും റസിസ്റ്റൻസ് ആണ് ടെർമിനൽ എ ലെയ്ക്കും ബി ലെയ്ക്കും നോക്കിയിരിക്കുത് ഇതാണ് മുന്നത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ സെഷനിൽ നമ്മൾ കേസ് 2 നെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യും ഈ കേസിൽ ആശ്രിത സ്രോതസ്സുകൾ ഉണ്ട് നമുക്ക് ഇവ ഓഫ് ചെയ്യാൻ പറ്റുകയില്ല കാരണം ഇവ സർക്യൂട്ടിലെ വേറെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഈ ആശ്രിത സ്രോതസ്സുകളെ നമ്മൾ സർക്യൂട്ടിലേക്ക് ഘടിപ്പിക്കുന്നു അങ്ങനെ സ്വതന്ത്ര സ്രോതസ്സുകളെ എല്ലാം നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും ഈ ആശ്രിത സ്രോതസ്സുകളെ ഓഫ് ചെയ്യാൻ പറ്റാത്തതിനാൽ സർക്യൂട്ടിലെ വേറെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ നമ്മൾ ഇവയെ സർക്യൂട്ടിൽ വെയ്ക്കും കൂടാതെ ടെർമിനൽ ab യിൽ വോൾടേജ് പ്രയോഗിക്കും എന്നിട്ട് കറണ്ടിനെ കണ്ടുപിടിക്കും ഇതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് എല്ലാ സ്വതന്ത്ര സ്രോതസ്സുകളും പൂജ്യത്തിനു തുല്യം ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ കൂടാതെ എല്ലാ ആശ്രിത സ്രോതസ്സും നെറ്റ്വർക്കിൽ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വോൾടേജ് ടെർമിനൽ എ യിലേക്കും ബി യിലേക്കും എത്തിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കറണ്ട് യും എത്തിച്ചു കൊടുക്കും ആ കേസിൽ കിർച്ചോഫ് വോൾടേജ് ലോയോ കറണ്ട് ലോയോ ഉപയോഗിച്ച് സർക്യൂട്ട് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ തെവനിയൻ റെസിസ്റ്റൻസിൻ്റെ മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കും വേറൊന്നുമല്ല പക്ഷെ ആണ് സർക്യൂട്ടിൽ മാറ്റാൻ സാധിക്കാത്ത ആശ്രിത സ്രോതസ്സ് ലഭ്യം ആണെങ്കിൽ ഇതിൽ ആദ്യം നമുക്ക് സ്വതന്ത്ര സ്രോതസ്സുകളെ മാറ്റാം എന്നിട്ട് വോൾട്ടേജ് പ്രയോഗിക്കാം എന്നിട്ട് കറൻറ് അളക്കാം അപ്രകാരം തെവനിയൻ റെസിസ്റ്റൻസിൻ്റെ മൂല്യം കണ്ടുപിടിക്കാം പകരമായി യും ഒരു കറണ്ട് സ്രോതസ്സ് ഇടയിൽ ചേർത്തിട്ടു കണ്ടുപിടിക്കാം അപ്പോൾ വോൾടേജ്ജിന് പകരം കറണ്ട് പ്രയോഗിക്കുവാണെങ്കിൽ ഈ രണ്ടു ടെർമിന്നലുകളുടെ ഇടയ്ക്കുള്ള വോൾട്ടേജ് അളക്കാം അളക്കുമ്പോൾ വീണ്ടും ൻ്റെ മൂല്യം ആയിട്ട് കിട്ടും ഈ രണ്ടു കേസിലും നമുക്ക് ഇവ ഏതെങ്കിലും ഉപയോഗിക്കാം എന്തു തന്നെയായാലും നമുക്ക് ഒരേ ഫലം തന്നെ കിട്ടും ഇപ്പോൾ ആശ്രിത സ്രോതസ്സ് സർക്യൂട്ടിൽ ഉള്ളപ്പോൾ എന്താണ് നമ്മൾ പാലിക്കേണ്ട പ്രക്രിയ നമുക്ക് കണ്ടുപിടിക്കണം അതായത് തെവനിയൻ റെസിസ്റ്റൻസ് സ്വതന്ത്ര സ്രോതസ്സ് നമുക്ക് 0 ആക്കി വെക്കണം കൂടാതെ ആശ്രിത സ്രോതസ്സ് ഘടിപ്പിക്കണം നെറ്റ്വർക്കിൽ ആശ്രിത സോതസ്സുകൾ ഉള്ളതിനാൽ പുറത്തുനിന്ന് ഉള്ള വോൾട്ടേജ് ൻ്റെയോ കറണ്ട് സ്രോതസ്സിൻ്റെയോ ഇവ ടെർമിനലിൽ ഘടിപ്പിച്ചിരിക്കുന്നവ ആയിരിക്കും ഇവയുടെ സഹായത്തോടെ നെറ്റ്വർക്കിനെ ഉണർത്തണം പൊതുവായി നമ്മൾ 1 ആയി സ്ഥാപിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മുടെ ഗണനം എളുപ്പമാക്കും കൂടാതെ സർക്യൂട്ട് ലീനിയർ ആയതിനാൽ അതായത് ഇത് ഹോമോജീനിയസ് ആശയം പാലിക്കുന്നു അതിനാൽ ഇത് 1 വോൾട് ആയിക്കോട്ടെ 10 വോൾട് ആയിക്കോട്ടെ സർക്യൂട്ടിൻ്റെ പ്രതിതസ്പന്ദനം അപ്രകാരം ഉയർത്തിയിട്ട് ഉണ്ടാകും സർക്യൂട്ട് ലീനിയർ ആയതിനാൽ നമുക്ക് ഏതു വോൾട്ടേജും ടെർമിനലിന് കുറുകെ പ്രയോഗിക്കുവാൻ വളരെ എളുപ്പമാണ് പക്ഷേ 1 വോൾടേജ് ആണ് ഏറ്റവും എളുപ്പം കാരണം ഇത് ഗണനം ഏറ്റവും എളുപ്പമാക്കും ഇനി നമുക്ക് യുടെ മൂല്യം നിർണയിക്കാം കാരണം നമ്മൾ വോൾട്ടേജ് സർക്യൂട്ട് കുറുകെ ചേർത്തിട്ടുണ്ട് ടെർമിനലിന് കുറുകെ പ്രവഹിക്കുന്ന നമ്മൾ KVL ൻ്റെയോ KCL ൻ്റെയോ സഹായത്തോടെ കണ്ടുപിടിക്കണം എന്നിട്ട് നമുക്ക് ലഭിക്കുന്ന തെവനിയൻ റെസിസ്റ്റൻസ് വേറൊന്നുമല്ല പക്ഷേ ആണ് കേസ് 1 യിൽ ആകും നമ്മൾ 1 ആംപിയർ കറണ്ട് സ്രോതസ്സ് ചേർക്കാം ഇത് തരും കാരണം 1 ആണ് കറണ്ട് സ്രോതസ്സ്ൻ്റെ മൂല്യം ഇനി നമുക്ക് ഈ ആശയം മനസ്സിലാക്കാം അതായത് ആശ്രിത സ്രോതസ്സുകൾ ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെ സർക്യൂട്ട് പരിഹരിക്കാം ഒരു ഉദാഹരണത്തിൻ്റെ സഹായം തേടാം ഈ സർക്യൂട്ട് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം നമുക്ക് ഫൈവ് ആമ്പിയർ ഉള്ള ഒരു സ്വതന്ത്ര കറണ്ട് സ്രോതസ്സ് ഉണ്ട് ഇത് കൂടാതെ നമുക്ക് ഒരു ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് ഉണ്ട് ഇതിൻ്റെ മൂല്യം 4 ഓം റസിസ്റ്റൻറ്സ്ന് കുറുകെയുള്ള വോൾട്ടേജ് ആയിരിക്കും അതിനാൽ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം ടെർമിനൽ എബിയുടെ ഇടതുവശത്ത് നമുക്ക് തെവനിയൻ തുല്യത കണ്ടുപിടിക്കണം ഈ തെവനിയൻ തുല്യത നമ്മുടെ മുഴുവൻ സർക്യൂട്ടും ആയി തുല്യമായിരിക്കണം ഇനി നമുക്ക് ഇത് പരിഹരിക്കാം എന്താണ് ആദ്യം ചെയ്യേണ്ടി വരിക ഉത്തരം കാണുക അതായത് തെവനിയൻ റസിസ്റ്റൻസ് ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എല്ലാ സ്വതന്ത്ര സ്രോതസ്സുകളും മാറ്റിവെച്ചിട്ട് ഈ കേസിൽ അവ കറണ്ട് സ്രോതസ്സുകളാണ് ഇവയെ ഓപ്പൺ സർക്യൂട്ട് ആക്കാം അപ്പോൾ ഇപ്പോൾ പരിണതഫലത്തിൽ കിട്ടുന്ന സർക്യൂട്ട് ഇങ്ങനെ ആയിരിക്കും നമ്മൾ അതിന് എന്തു ചെയ്യണം 1 വോൾട് ഉള്ള എന്ന വോൾട്ടേജ് സ്രോതസ്സ് ഇതിലേക്ക് ചേർക്കണം ഇവ ടെർമിനൽ എ യുടെയും ബി യുടെയും കുറുകെ ആയിരിക്കും ഘടിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് ഈ സർക്യൂട്ട് പരിഹരിക്കുക ഇപ്പോൾ നമ്മൾ ഇവിടെ കറണ്ട് സ്രോതസ്സിനെ സ്രോതസ്സ് ഓപ്പൺ സർക്യൂട്ട് ആക്കിയിട്ടുണ്ട് ഇത് 4 ഓം റെസിസ്റ്ററിന് കുറുകെ ഘടിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഒരു വോൾട് ഉള്ള വോൾട്ടേജ് സ്രോതസ്സും ടെർമിനൽ എ ബി യ്യ്ക്കു കുറുകെ ചേർത്തിരിക്കുന്നു അതിനാൽ നവീകരിച്ച സർക്യൂട്ട് ഈ ചിത്രത്തിൽ കാണാം ഇനി ഇത് എങ്ങനെ പരിഹരിക്കും മെഷ് വിശകലനം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത് പോലെ ഉപയോഗിക്കാം അപ്പോൾ നമുക്കിവിടെ മൂന്ന് മെഷു കൾ അതായത് മൂന്ന് മെഷ് കറണ്ടുകൾ ഉണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം മെഷ് വിശകലനം ഉപയോഗിച്ച് സർക്യൂട്ട് പരിഹരിക്കണം അപ്പോൾ ലൂപ്പ് ഒന്നിൻ്റെ കേസിൽ സമവാക്യത്തിൻ്റെ മൂല്യം എന്തായിരിക്കും അപ്പോൾ ലൂപ്പ് ഒന്ന് പരിഹരിക്കുമ്പോൾ അത് മൈനസ്സിൽ നിന്ന് പ്ലസി ലേക്ക് പോകുന്നതിനാൽ വോൾട്ടേജ് സ്രോതസ്സ്ന് കുറുകെ അത് ഇത്രആയിരിക്കും ഈ മെഷ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും 4 ഓം റസിസ്റ്ററിനു കുറുകെ വോൾടേജ് ഡ്രോപ്പ് ഉണ്ടായി എന്ന് പക്ഷേ ഇത് വേറൊന്നുമല്ല കറണ്ട് ലേക്കുള്ള 4 ഓം ആണ് ഇനി കറണ്ടിൻ്റെ ദിശ വോൾട്ടേജിൻ്റെ ധ്രുവത്വത്തിൻ്റെ എതിരായതിനാൽ എന്തു സംഭവിക്കും നമുക്ക് ലളിതമായി പറയാം അതിനാൽ ആ കേസിൽ നമുക്ക് ലളിതമാക്കാം അപ്പോൾ നമുക്ക് കിട്ടും അടുത്തത് നമ്മളെന്തു ചെയ്യണം നമ്മൾ ഗ്രൂപ്പ് രണ്ടിലും മൂന്നിലും KVL പ്രയോഗിക്കണം അതിനാൽ രണ്ടിൽ KVL പ്രയോഗിച്ചാൽ എന്ത് സംഭവിക്കും

ലൂപ്പ് മൂന്നിൽ നമുക്ക് എന്ത് കിട്ടും ഇപ്പോൾ നമ്മൾ പരിഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മൂല്യം A നമുക്ക് നോട് സമമാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ സർക്യൂട്ട് നോക്കിയാൽ യുടെ എതിർ ദിശയിൽ ആണ് അതിനാൽ നമുക്ക് പറയാം A ഇപ്പോൾ ന് നമുക്ക് എന്തു കിട്ടും Ω ഇനി നമുക്ക് കണ്ടുപിടിക്കണം കാരണം നമ്മൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ചതാണ് കണ്ടു പിടിക്കുന്നതിനു വേണ്ടി നമ്മളെന്തു ചെയ്യണം നമ്മൾ ടെർമിനൽ എ ബി ക്ക് കുറുകെയുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം അതിനാൽ നമ്മൾ വീണ്ടും സർക്യൂട്ടിൽ അഞ്ച് ആമ്പിയർ സ്വതന്ത്ര കറണ്ട് സ്രോതസ്സ് ചേർക്കും എന്നിട്ട് നമ്മൾ പരിഹരിക്കും അപ്പോൾ നമുക്കിവിടെ സർക്യൂട്ടിൽ 3 മെഷുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഈ മൂന്ന് മെഷിലും മെഷ് സമവാക്യം എഴുതും അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെ ലളിതമായി കിട്ടും അത് വേറൊന്നുമല്ല അഞ്ച് ആമ്പിയർ ആണ് കാരണം ഇതിലേക്ക് സ്വതന്ത്ര കറണ്ട് സ്രോതസ്സ് ഘടിപ്പിച്ചിരിക്കുന്നു ഇനി അടുത്ത ഈ മെഷിന് നിങ്ങൾ എന്തു ചെയ്യും

ഇനി നമുക്ക് മെഷ് സംഖ്യ മൂന്നിനെ കുറിച്ച് സംസാരിക്കാം നമുക്ക് എന്ത് കിട്ടും

നമുക്കറിയാം മൂല്യം നമുക്ക് ആശ്രയത്തിൽ നിന്ന് അറിയാം ഇത് പരിധി മൂല്യംആണെന്ന് അതായത് അപ്പോൾ ഈ സമവാക്യം പരിഹരിക്കുമ്പോൾ ഈ മൂല്യം ഇടുമ്പോൾ ഇപ്പോൾ അതിനാൽ ഇത് ഇനി വേറൊരു സമവാക്യം കിട്ടിക്കുക വിൻ്റെ യും യുടെയും അനുശ്രണമായി നമ്മൾ ഉപയോഗിക്കും നമുക്ക് കിട്ടും ഇനി ഈ രണ്ട് സമവാക്യങ്ങളും ഉണ്ട് അതിൽവും വും അജ്ഞാതമാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ ലളിതമായി പരിഹരിക്കാം കൂടാതെ അന്തിമമായി നിങ്ങൾക്ക് കിട്ടുന്ന മൂല്യം ആയിരിക്കും ഇപ്പോൾ V ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം ഈ സർക്യൂട്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് തെവനിയൻ തുല്യതയാണ് പക്ഷേ ഈ സർക്യൂട്ടിൽ നമുക്ക് സ്വതന്ത്ര വോൾട്ടേജ് സ്രോതസോ കറണ്ട് സ്രോതസോ ഇല്ല അതിനാൽ ആശ്രിത സ്രോതസ്സ് മാത്രമേ ഉള്ളു ആ കേസിൽ നമുക്ക് കറണ്ട് സ്രോതസ്സ് ആശ്രിതത്വം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കാണുന്നത് ഈ സർക്യൂട്ടിൽ 2 ഓം റെസിസ്റ്റൻസ് 4 ഓം റെസിസ്റ്റൻസ് ആയിട്ട് പാരലൽ ആയിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഇത് രണ്ടും പാരലൽ ആണ് അതിനാൽ ഇത് രണ്ടും ആശ്രിത കറണ്ട് സ്രോതസ്സും ആയി പാരലൽ ആണ് ഇനി നമ്മൾ കരുതേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വതന്ത്ര സ്രോതസ്സുകൾ ഒന്നും സർക്യൂട്ടിൽ ഇല്ലാത്തതിനാൽ നമ്മൾ സർക്യൂട്ട് പുറത്തുനിന്ന് ഉണർത്തണം എന്താണ് ഇതിൻ്റെ അർത്ഥം അതിനാൽ വോൾട്ടേജ് സ്രോതസ്സോ കറണ്ട് സ്രോതസ്സോ എ ബി ടെർമിനലിന് കുറുകെ പ്രയോഗിക്കണം അത് വഴി സർക്യൂട്ട് പുറത്തുനിന്ന് ഉണർത്തുവാൻ സാധിക്കും അത് വഴി തെവനിയൻ തുല്യത കണ്ടുപിടിക്കാനും വേറെ ഒരു കാര്യം നമ്മൾ പരിഗണിക്കേണ്ടത് എന്താണെന്നുവെച്ചാൽ നമുക്ക് സ്വതന്ത്ര സ്രോതസ്സുകൾ ഒന്നുമില്ലാത്തതിനാൽ നമ്മൾ തെവനിയൻ വോൾട്ടേജിൻ്റെ മൂല്യം കണ്ടുപിടിക്കേണ്ടത് ഇല്ല കാരണം ഈ ചിത്രം നോക്കിയാൽ ഈ കറണ്ട് സ്രോതസ്സിൻ്റെ മൂല്യം 2 ഓം റസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ പുറത്തുള്ള സ്രോതസ്സ് ഇല്ലാത്തിടത്തോളം ഈ സർക്യൂട്ട് നമുക്ക് ഉത്തേജിപ്പിക്കുവാൻ പറ്റുകയില്ല അതായത് ടെർമിനൽ എ യും ബി യും ഓപ്പൺ സർക്യൂട്ട് ആയി ഉണ്ടെങ്കിൽ നമ്മൾ ടെർമിനൽ എ ക്കും ബി യ്ക്കും കുറുകെയുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത് ഉണ്ട് ഇത് എപ്പോഴും 0 ആയിരിക്കും കാരണം സർക്യൂത്തിൻ്റെ സപ്ലൈ പവറിലേക്ക് ഒരു സ്വതന്ത്ര സ്രോതസ്സും ഇല്ല അതിനാൽ നമുക്ക് പറയാം നമുക്ക് ഒന്നുമില്ല അതിനാൽ ഈ തരം സ്രോതസ്സിൽ നിർണയിക്കേണ്ടത് ഇല്ല അപ്പോൾ നമുക്ക് ബാക്കി ആയിട്ട് കണ്ടുപിടിക്കാൻ ഉള്ളത് തെവനിയൻ റെസിസ്റ്റൻസിൻ്റെ മൂല്യം മാത്രമാണ് അടുത്ത ലളിതമായ സമീപനം എന്താണെന്നുവെച്ചാൽ ഒന്നെങ്കിൽ ഒരു വോൾട്ട് വോൾട്ടേജ് സ്രോതസ്സ് പ്രയോഗിക്കുക അല്ലെങ്കിൽ ഒരു ആമ്പിയർ കറണ്ട് സ്രോതസ്സ് ഇപ്പോൾ നമുക്ക് ഒരു കറണ്ട് സ്രോതസ്സ് പ്രയോഗിക്കാം എന്നിട്ട് അത് പരിഹരിക്കാം ഇപ്പോൾ എന്ത് ചെയ്യും നമുക്ക് കാണാം ഈ സർക്യൂട്ടിൽ ഒരു നോഡ് സർക്യൂട്ട് എ ബി യ്ക്ക് കുറുകെയുള്ള വോൾട്ടേജ് വേറൊന്നുമല്ല പക്ഷേ രണ്ടു റെസിസ്റ്ററിൻ്റെയും കുറുകെയുള്ള വോൾട്ടേജ് ആണ് കാരണം ഈ എല്ലാ ഘടകങ്ങളും പാരലൽ ആണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നോഡൽ സമവാക്യം ഉപയോഗിച്ച് ഇത് പരിഹരിക്കും കാരണം ഈ സർക്യൂട്ടിൽ കിർച്ചോഫ് കറണ്ട് ലോ പ്രയോഗിക്കുവാൻ എളുപ്പമാണ് അതിനാൽ നോഡൽ സമവാക്യം പ്രയോഗിക്കുവാൻ നമുക്ക് ശ്രമിക്കാം യുടെ മൂല്യം 1 ആംപിയർ എന്ന് കൊടുക്കാം ഇനി നമ്മൾ ഈ നോഡ് എടുത്താൽ a നോഡ് ആയിക്കോട്ടെ ഈ നോഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ നോഡ് ആയിക്കോട്ടെ ഇതെല്ലാം തരുന്നത് ഒരേ പൊട്ടൻഷ്യൽ ആണ് അതായത് ഇവയെല്ലാം ഒരു നോഡ് ആയിട്ട് കരുതപ്പെടും ഇനി ഈ നോഡിൽ കിർച്ചോഫ് കറണ്ട് ലോ പ്രയോഗിച്ചാൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നോഡിൽ പുറത്തേക്ക് പോകുന്ന കറണ്ട് ആണ് പുറത്തേക്ക് പോകുന്ന വേറൊരു കറണ്ട് ആണ് വേറൊരു കറണ്ട് ആണ് ഇനി അകത്തേക്ക് പോകുന്ന കറണ്ട് ആണ് ഇനി ഇത് പരിഹരിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും സമവാക്ക്യം നോടും നോടും അനുശ്രണമായി കിട്ടും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സമവാക്യമേ ഉള്ളു നമുക്ക് രണ്ട് പരിവർത്തന വസ്തുക്കൾ ഉണ്ട് അതായത് നമുക്ക് ഒരു സമവാക്യം കൂടി വേണം ഈ സർക്യൂട്ട് പരിഹരിക്കുവാൻ ഇതിനാൽ നമുക്ക് എവിടെ നിന്ന് രണ്ടാമത്തെ സമവാക്ക്യം കിട്ടും ഈ സമവാക്യം നമുക്ക് ഈ പരിധിയിൽ നിന്ന് കിട്ടും പരിധി ഈ കേസിൽ കറണ്ട് ആണ് അതായത് ആശ്രിത കറണ്ട് സ്രോതസ്സിൻ്റെ മൂല്യം നിർവചിക്കുന്നത് അതായത് ഇനി ൻ്റെ മൂല്യം കണ്ടാൽ വേറൊന്നുമല്ല പക്ഷെ കാരണം ൻ്റെ ദിശ സ്വാഭാവികമായ കറണ്ടിൻ്റെ ദിശയുടെ എതിർ ആണ് വോൾടേജിനു റഫറൻസ് വോൾടജിനേക്കാളും കൂടിയ പ്രബലമായ ശക്തി ഉണ്ടെങ്കിൽ ആവഴിക്കു ഇത് ആകും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം യുടെ മൂല്യം ഈ സമവാക്യത്തിൽ ഇടാം അവസാനം മൂല്യങ്ങൾ ഇവിടെ ഇട്ടു കഴിയുമ്പോൾ നമുക്ക് മാത്രമേ അജ്ഞാതമായി ഈ സമവാക്യത്തിൽ ഉണ്ടാവുകയുള്ളൂ മൂല്യം വളരെ ലളിതമായി ഇട്ടിട്ട് നമുക്ക് പരിഹരിക്കാം അങ്ങനെ പരിഹരിക്കുമ്പോൾ നമുക്ക് V എന്ന മൂല്യം കിട്ടും ആകും തെവനിയൻ റസിസ്റ്റൻസിൻ്റെ മൂല്യം മൈനസ് 4 ഓം റെസിസ്റ്റൻസ് നിൻറെ നെഗറ്റീവ് മൂല്യം ആദ്യം നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാസ്സീവ് അടയാള സൂചന സർക്യൂട്ട് പവർ ആണ് എത്തിച്ചുകൊടുക്കുന്നത് റെസിസ്റ്ററിനു പവർ എത്തിച്ചുകൊടുക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് ആരായിരിക്കും പവർ എത്തിച്ചു കൊടുക്കുന്നത് നെറ്റ്വർക്ക് ലേക്ക് ഘടിപ്പിച്ചിട്ടുള്ള ആശ്രിത സ്രോതസ്സ് ഉദാഹരണത്തിൽ നമുക്ക് കാണാം എങ്ങനെ ഒരു ആശ്രിത സ്രോതസ്സും റെസിസ്റ്റൻസും നെഗറ്റീവ് റെസിസ്റ്റൻസിനെ അനുകരിക്കുവാൻ ഉപയോഗിക്കാമെന്ന് അതിനാൽ ഈ സവിശേഷതകൾ എല്ലാം വളരെ പ്രധാനമാണ് ചിലപ്പോൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ ചേർക്കേണ്ടിവരും പിന്നെ ഇത് പോലെയുള്ള സർക്യൂട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഈ പ്രശ്നം നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ പരിഹരിച്ചാൽ നമുക്ക് നോക്കാം അതേ ഉത്തരം തന്നെ കിട്ടുമോ ഇല്ലയോ എന്ന് സങ്കൽപ്പിക്കുക നമുക്ക് 9 ഓം റെസിസ്റ്റൻസ് ലോഡ് ഉണ്ടെന്ന് കൂടാതെ ടെർമിനലിലേക്ക് ഘടിപ്പിച്ചിട്ടുള്ള 10 വോൾട്ട് സ്രോതസ്സും എന്നാൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് തെവനിയൻ സിദ്ധാന്തം പാലിക്കേണ്ട എന്നാണ് സർക്യൂട്ട് വിശകലനം ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും നിങ്ങൾ സർക്യൂട്ട് നോക്കുക ഒരു കറണ്ട് സ്രോതസ്സ് 4 ഓം റെസിസ്റ്റൻസ് സ്രോതസ്സായി പാരലൽ ആണ് സ്രോതസ്സ് പരിവർത്തനം പ്രയോഗിക്കാം ഇത് പരിഹരിക്കുവാൻ ആയി 4 ഓം റെസിസ്റ്റൻസ് കറണ്ട് സ്രോതസ്സ്സ് പാരലൽ ആയിട്ടുള്ള സന്ധിചേരലിനെ വോൾടേജ് സ്രോതസ്സ് നാല് ഓം റസിസ്റ്റൻസ് ആയി സീരീസിലുള്ള ഒരു സർക്യൂട്ട് ആയി മാറ്റണം അതായത് സോതസ്സ് പരിവർത്തനം നമ്മൾ നേരത്തെ പഠിച്ചത് ഈ കേസിൽ സംഭവിക്കും വോൾട്ടേജ് സോതസ്സ്ൻ്റെ മൂല്യം ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് ആണ് എന്തുകൊണ്ടെന്നാൽ ഇത് ആശ്രിത കറണ്ട് സ്രോതസ്സ് ആണ് അപ്പോൾ വോൾട്ടേജ് സ്രോതസ്സിൻ്റെ മൂല്യം ആയിരിക്കും പ്ലസ് സൂചനയുടെ ദിശ ധ്രുവത്വം പ്ലസ് ആയിരിക്കും കറണ്ട് പ്രവഹിക്കുന്ന ദിശയിൽ ഇതിനാലാണ് താഴെ കൊടുത്തിട്ടുള്ള സൂചന പ്ലസ് മുകളിലെ സൂചന മൈനസ് കൂടാതെ ഒരു 4 ഓം റസിസ്റ്റൻസ് ആയിട്ട് സീരീസിലും എന്നാൽ ഈ ഭാഗം വോൾട്ടേജ് സ്രോതസ്സ് 4 ഓം റെസിസ്റ്റൻസുമായി സീരീസിലുള്ള സർക്യൂട്ട് ആയി മാറ്റിയിട്ടുള്ളത് എന്നിട്ട് 2 ഓം റെസിസ്റ്റൻസ് കൂട്ടുക ഇത് സർക്യൂട്ടായി പാരലൽ ആയിട്ടാണ് ഇതാണ് ലോഡ് ഘടകം ടെർമിനൽ എ ബി യുമായി ഘടിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ നവീകരിച്ച സർക്യൂട്ട് ഇതുപോലെ ആയിരിക്കും ഇവിടെ നമുക്ക് രണ്ട് മെഷ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മെഷ് സമവാക്യം രണ്ടിലും എഴുതണം അപ്പോൾ ഇത് രണ്ട് മെഷ് സമവാക്യങ്ങൾ ആകും ഈ 2 മെഷുകളും കൂടാതെ നമുക്ക് വേറൊരു പരിധി ന് ഉണ്ട് അത്വേറൊന്നുമല്ല ഇനി നിങ്ങൾ നോക്കിയാൽ മൂന്നു സമവാക്യങ്ങൾ ഉണ്ട് ഇത് പരിഹരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആണ് ലൂപ്പ് 2 യിൽ KVL ഉപയോഗിച്ചാൽ നമുക്ക് A കിട്ടും കാരണം നിങ്ങൾ ചോദിച്ചത് അത് പരിഹരിച്ചത് സർക്യൂട്ടിൻ്റെ സഹായത്തോടെയാണ് എന്നിട്ട് നിങ്ങൾക്ക് കറണ്ടിൻ്റെ മൂല്യം കിട്ടി കാരണം വേറൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ ലൂപ്പ്ൻ്റെ സമവാക്യം എഴുതി ഇതാണ് മെഷിൻ്റെ കേസിൽ നിങ്ങൾ ഉപയോഗിച്ചത് ൻ്റെ മൂല്യം ഇവിടെ ഇടുക ഇത് പരിഹരിക്കുക നിങ്ങൾക്ക് കിട്ടും അത് വേറൊന്നുമല്ല പക്ഷെ 2 ആംപിയർ ആണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയത് അത് തെവനിയൻ സിദ്ധാന്തം ഉപയോഗിക്കാതിരുന്നപ്പോൾ സർക്യൂട്ട് പരിഹരിച്ചപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ തെവനിയൻ റെസിസ്റ്റൻസ് നിർണ്ണയിച്ചു കഴിഞ്ഞു ഈ രണ്ട് ടെർമിന്നലിന് കുറുകയും നമുക്ക് തെവനിയൻ വോൾട്ടേജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ തെവനിയൻ സിദ്ധാന്തത്തിൻ്റെ ആശയം ഉപയോഗിച്ചാൽ നമ്മൾ ചർച്ച ചെയ്തത് നമുക്ക് ഒരു ഓം റെസിസ്റ്റൻസ് ഉണ്ടാകും തെവനിയൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് തെവനിയൻ വോൾടേജ് ഇല്ലാതെ അപ്പോൾ ഇതിൻറെ ഇടതുവശത്ത് അത് ഇതായിരുന്നു നമ്മുടെ യഥാർത്ഥ സർക്യൂട്ട് ഓം റെസിസ്റ്റൻസ് ആയിട്ട് മാറ്റി വെയ്ക്കാം അതായത് ടെർമിനൽ എ ബി ക്ക് കുറുകെ ഘടിപ്പിച്ചിട്ടുള്ള തെവനിയൻ റെസിസ്റ്റൻസ് ഇപ്പോൾ നമുക്ക് വളരെ ലളിതമായ സർക്യൂട്ട് ഉണ്ട് തെവനിയൻ സിദ്ധാന്തം ആലോചിച്ചാൽ തുല്യത റെസിസ്റ്റൻസ് 5 ഓം റെസിസ്റ്റൻസ് ഈലൂപിൽ കിട്ടു 10 വോൾട്ട് വോൾട്ടേജ് സ്രോതസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് KVL ഈ സർക്യൂട്ടിൽ പിന്നെയും പ്രയോഗിച്ചാൽ നമുക്ക് പിന്നെയും കറണ്ട് A ആയി കിട്ടും ഈ രണ്ട് സമ്പ്രദായങ്ങളും താരതമ്യം ചെയ്താൽ സർക്യൂട്ട് വിശകലനം ചെയ്താൽ സ്രോതസ്സ് പരിവർത്തനത്തിൻ്റെ സഹായത്തോടെഎന്നിട്ട് മെഷ് വിശകലനസമ്പ്രദായം പ്രയോഗിച്ചാൽ ൻ്റെ മൂല്യം നിർണ്ണയിക്കുവാൻ തെവനിയൻ സിദ്ധാന്തം ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് വളരെ എളുപ്പത്തിൽ സർക്യൂട്ട് ലളിതമാക്കി പക്ഷേ മറ്റേ സമ്പ്രദായവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഒരു ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് ഉപയോഗിച്ചു ആശ്രിത കറണ്ട് സ്രോതസ്സ് ഘടിപ്പിച്ചു ആ കേസിൽ തെവനിയൻ തുല്യത രൂപീകരിച്ചത് എങ്ങനെയാണ് കൂടാതെ എങ്ങനെയാണ് ആശ്രിത സ്രോതസ്സ് ഘടിപ്പിച്ചിരിക്കുമ്പോൾ സർക്യൂട്ട് പരിഹരിക്കുക അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഈ ആഴ്ചയിലെ സെഷനുകൾ അവസാനിപ്പിക്കുന്നു ഇവിടെ നമ്മൾ ചില പ്രധാനപ്പെട്ട സർക്യൂട്ടിലെ ആശയങ്ങൾ പഠിച്ചു നമ്മൾ സൂപ്പർ പൊസിഷൻ തെവനിയൻ സിദ്ധാന്തം പഠിച്ചു ഇനി അടുത്ത ആഴ്ച നമ്മൾ വേറൊരു സിദ്ധാന്തം അതായത് നോർട്ടൻ സിദ്ധാന്തം വെച്ച് തുടങ്ങാം